നമസ്കാരം അസ്യൂറിന്റെ ഡെമ്മോയുടെ ചർച്ച നമുക്ക് തുടരാം ഇവിടെ അസ്യൂർ സിസ്റ്റത്തിന്റെ ആണ് മറ്റു ആപ്പുകൾ ഇതിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും എന്റെ കൂടെ ഇവിടെ ഉള്ളത് ശുഭാഭ്രാത്തയാണ് നമസ്കാരം ശുഭബ്രത നിങ്ങൾക്ക് ഇത് ഒരു ലൈവ് ഡെമോ ആയി കാണിച്ചു തരും പടിപടിയായി എന്തൊക്കെ ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞുതരും ഇതാണ് ഏതൊരു അസ്യൂർ ആപ്പും ഉപയോഗിക്കേണ്ട സ്റ്റാൻഡേർഡ് സ്റ്റെപ്പ് അപ്പോൾ ശുഭബ്രത തുടങ്ങാനായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശരി ഡെമോയുടെ പ്രദർശനം നമസ്കാരം നമ്മൾ ഇവിടെ പൈത്തൺ വെബ് ആപ്ലിക്കേഷൻ അതിൻറെ കൂടെ സ്വന്തമായി കൂട്ടിച്ചേർക്കാനും ഇവർക്ക് പറ്റും ഇതിന് ഒരു ലോക്കൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കാൻ സാധിക്കും ഇതാണ് അസ്യൂറിന്റെ പോർട്ടൽ പോർട്ടൽ പോർട്ടൽ ഡോട്ട് അസ്യുർ ഡോട്ട് കോം എന്ന് കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കണം ശുഭബ്രതയുടെ കയ്യിൽ നേരത്തെ തന്നെ ലോഗിൻ ഉണ്ട് അദ്ദേഹമത് വെച്ചാണ് ഇവിടെ ലോഗിൻ ചെയ്യുന്നത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ ഒരു ലോഗിൻ ഉണ്ടാക്കേണ്ടിവരും വരും ഇത് എന്നെ നേരെ മൈക്രോ സോഫ്റ്റ് അക്കൌണ്ട് സൈൻ ഇൻ പേജിലേക്ക് ചെയ്യണം അത് അസ്യൂർ ടെർമിനൽ ആണ് ഇത് ക്ലൌഡ് ഷെൽ ക്ലൌഡ് ഷെൽ ഇവിടെ അത് പൂർത്തിയായിരിക്കുന്നു ഇനി അത് ടെർമിനലിലോട്ട് ചെയ്യണം ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രോജക്ടിനെയാണ് ഡൌൺലോഡ് ചെയ്യുന്നത് അതിനെ ഗിറ്റിൽ എന്ന ഡെമോ വരും ഇവിടെ അപ്പോൾ ഒരു പ്രോജക്ട് ഡയറക്ടറിയെ ക്ലോൺ ചെയ്യുകയാണ് ഇനി നമുക്ക് പ്രോജക്ട് ഫോൾഡറിലേക്ക് പോകണം ഇതാണ് പ്രോജക്ട്ഫോൾഡർ സി ഡി എന്നു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹലോ വേൾഡ് അപ്പോൾ ഇവിടെ ഹലോ വേൾഡ് എന്ന കോട് ചെയ്യുകയാണ് ഞാൻ ഈ വെബ് ആപ്ലിക്കേഷൻ ഇവിടെ ഉപയോഗിക്കുകയാണ് ബ്രൌസറിൽ ഞാൻ ലോക്കൽഹോസ്റ്റ് 5000 എന്ന് എഴുതുകയാണ് ഇത് ഇപ്പോൾ എനിക്ക് ഹലോ വേൾഡ് എന്ന് കാണിച്ചു തരുന്നു ഞാൻ ഇവിടെ ഈ പ്രോജക്ടിനെ മൈക്രോ സോഫറ്റ് അസ്യൂറിലോട്ട് തള്ളിവിടുകയാണ് അവിടെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ലോക്കൽ പ്രോജക്ടിനെ മൈക്രോസോഫ്റ്റ് അസ്യൂറിൽ ഹോസ്റ്റ് ചെയ്യിക്കുവാൻ സാധിക്കും അസ്യൂർ ക്ലയന്റിന് ഡിപ്ലോയിമന്റ് യൂസറെ കൊടുക്കണം ഇത് റിസോഴ്സ് ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്നു ഡിപ്ലോയിമെൻറ് യൂസറിനേയും റിസോഴ്സ് ഗ്രൂപ്പിനെയും തയ്യാറാക്കി ഇനി വേണ്ടത് ആപ്പ് സർവീസ് പ്ലാൻ

എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് വെബ് പേജ് കാണാൻ സാധിക്കും ഈ ഒരു കോഡ് പൈത്തൻ അടിസ്ഥാനമാക്കിയുള്ളതാണ് അപ്പോൾ പൈത്തൻ ഉപയോഗിക്കണമെങ്കിൽ ഇതിനെ കോൺഫിഗർ

നമ്മൾ ഇവിടെ പൈത്തൺ വേർഷൻ ശരിയാക്കുന്നതിന് പ്ലാറ്റ്ഫോം തരുന്ന ഡിഫോൾട്ട് കണ്ടെയ്നർ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഇവിടെ ലോക്കൽ ഗിറ്റ് ഡിപ്ലോയിമെൻറ് കോൺഫിഗർ ചെയ്യണം ഈ ഒരു ആപ്പ് വെബ് ആപ്പിൽ കണ്ടന്റുകൾ ഡിപ്ലോയി ചെയ്യാൻ വേണ്ടി ഒരുപാട് വഴികൾക്ക് പിന്തുണ നൽകുന്നു അതായത് എഫ് റ്റി പി ലോക്കൽ ഗിറ്റ് അങ്ങനെയെല്ലാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലോക്കൽ ഗിറ്റ് ആണ് അതിൻറെ അർത്ഥം നമ്മൾ ഗിറ്റ് ഉപയോഗിച്ച് ലോക്കൽ റിപ്പോസിറ്ററിയിൽ നിന്ന് നമ്മളുടെ റിപ്പോസിറ്ററിയിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു ഇവിടെ നിർദ്ദേശം എന്നത് എ ഇസെഡ് വെബ് ഡിപ്ലോമയ്മെൻറ് ഇവിടെ ഇവിടെ കൂട്ടണം അസ്യുർ യുആർഎൽ ഇനി നമുക്ക് ഇവിടെ നിർദേശം കൊടുക്കണം അത് ഗിറ്റ് പുഷ് അസ്യൂർ മാസ്റ്റർ നുള്ള ആപ്പിക്കേഷൻ കൊടുത്തപ്പോൾ ഉള്ളതായിരിക്കണം ആ പാസ്സ്വേഡ് ആണ് ഇവിടെ കൊടുക്കുക പാസ്സ്വേർഡ് നമ്മൾക്ക് ഇവിടെ കൊടുക്കണം ഇത് അസ്യുർ റിമോട്ടിനെ വെബ്ബ് ആപ്ലിക്കേഷനിനെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും കുറച്ച് സമയമെടുക്കും അത് കഴിഞ്ഞതിനുശേഷം നമ്മൾക്ക് ആപ്ലിക്കേഷൻ വീണ്ടും ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇതിനെ വിജയകരമായി ഡിപ്ലോയി ചെയ്തിരിക്കുന്നു ഇനി എനിക്ക് ഇങ്ങോട്ടേക്ക് വരണം ഇവിടെ ഹലോ വേൾഡ് എന്ന സന്ദേശം കൊടുക്കാൻ പറ്റും ഇനി ഞാൻ ഇവിടെ ലോക്കൽ പ്രോജക്റ്റ് ഫോൾഡറിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ് ഞാനിവിടെ മെയിൻ ഡോട്ട് പൈത്തൺ ഫയൽ തുറക്കുകയാണ് എന്നിട്ട് വ്യത്യാസം വരുത്തുന്നു ഞാൻ ഈ സന്ദേശത്തിൽ വ്യത്യാസം വരുത്തുകയാണ് വെൽക്കം ടു ദി എൻ പി ടി ഇ എൽ കോഴ്സ് ഓൺ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് കൊടുക്കുന്നു അങ്ങനെ ഇതിൽ അപ്ഡേഷൻ കൊടുക്കാൻ പറ്റുന്നു ഇനി നമുക്ക് ഈ കോഡിൽ ചെയ്യണം ഇത് നമ്മൾക്ക് വെൽക്കം ടു എൻ പി ടി ഇ എൽ കോഴ്സ് ഓൺ ക്ലൌഡ് കംപ്യൂട്ടിങ്ങ് എന്ന സന്ദേശം തരും ശുഭബ്രത കാണിച്ചു തന്ന ലോക്കൽ ഗിറ്റ് ഉപയോഗിച്ച് ഉള്ള പടിപടിയായി ഉള്ള നടപടി ക്രമം നമ്മൾ കണ്ടു കഴിഞ്ഞു അതുവെച്ച് അസ്യൂറിൽ സിങ്ക് തരത്തിലുള്ള അസ്യൂറിലുള്ള പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയാണ് വരുക ഏകദേശം ഒരുപോലെയുള്ള സവിശേഷതകൾ ആയിരിക്കും നമുക്ക് കൊമേഴ്സൽ ക്ലൌഡ് അതായത് മൈക്രോസോഫ്റ്റ് അസ്യൂറിനെക്കുറിച്ചുള്ള ചർച്ച ഇന്നിവിടെ നിർത്താം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത പാഠഭാഗത്തിൽ തുടരാം